ഈ ലെക്ച്ചറിൽ നാം ഇൻസ്ട്രമെന്റ് നെറ്റ്വർക്ക് അനലൈസർ instrument network analyzer ആയിരിക്കും നോക്കുക ഈ ചിത്രം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞു പോയ ലെക്ച്ചറിൽ ഇതിലെ ചില നെറ്റ്വർക്ക് ഫങ്ക്ഷനുകൾ ഞാൻ വിശദീകരിച്ചിരുന്നു അതുപോലെ തന്നെ ചില ബട്ടൺ ഫങ്ക്ഷനുകളും എന്നാൽ ഈ മൈക്രോവേവ് കംപോണന്റ് നാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്തെന്നാൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഈ കമ്പോണന്റുകൾ അടിസ്ഥാന ഘടകമാണ് അപ്പോൾ നമുക്ക് ഫിൽറ്റർ പോലുള്ള ഉപകരണങ്ങളുടെ പ്രത്യേകതകൾ പറയേണ്ടതുണ്ട് നമുക്ക് നോക്കേണ്ടത് എത്ര ഹാർമോണിക്സ് ഇവിടെ ഈ ആംപ്ലിഫൈർ നീക്കം ചെയ്യുന്നു ലോക്കൽ ആംപ്ലിഫൈർ പവർ പര്യാപ്തമാണോ അതുപോലെ ലോക്കൽ ഓസിലേറ്റർ പവർ പര്യാപ്തമാണോ ഇനി മിക്സർ എടുത്താൽ അത് കൃത്യമായി സിഗ്നൽ റിജെക്ട് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയാണ് ഇനി നാം ആന്റിനയിലേക്ക് യാതൊരു പവറും കൊടുക്കുന്നില്ല എന്ന് കരുതുക നമുക്കു നല്ല ഇമ്പിഡൻസ് മാച്ചിങ് ഉറപ്പാക്കേണ്ടതുണ്ട് അതായതു എത്രയൊക്കെ പവർ ആന്റിനയിലേക്ക് കൊടുത്താലും അത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നത് അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കു കാണാം ഇവിടെ മോശമായ മാച്ച് ആണ് നാം നൽകുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഇടതു വശത്തെ ആന്റിന കൃത്യമായല്ല മാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ 150 വാട്ട് പവർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ വലതു വശത്തു നോക്കുക അതെ ആന്റിന തന്നെ കൃത്യമായി മാച്ച് ചെയ്തത് കൊണ്ട് 1500 വാട്ട് പവർ റേഡിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഏകദേശം 3 ഇരട്ടി പവർ ഇവിടെ സിഗ്നൽ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അർഥം ആദ്യത്തെ കേസിൽ 40 കിലോമീറ്റർ സിഗ്നൽ സഞ്ചരിക്കുമെങ്കിൽ ഇപ്പോൾ അത് 120 കിലോമീറ്റർ ആയി ഉയർന്നു അപ്പോൾ ആന്റിന ആംപ്ലിഫൈർ എന്നിവ തമ്മിൽ കൃത്യമായ മാച്ചിങ് നിർബന്ധമാണ് എന്തെന്നാൽ റേഡിയോ സ്റ്റേഷനുകളിൽ പരമാവധി പവർ റേഡിയേറ്റ് ചെയ്യേണ്ടതാണ് ഇനി എന്ത് തര൦ ഉപകരണങ്ങൾ ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് പാസ്സീവ് ആക്റ്റീവ് ഉപകരണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾക്കു കാണാം ട്രാന്സിസ്റ്ററുകൾ VCO റിസീവർ ട്രാൻസ്മിറ്റർ മൊഡ്യൂൾ റഡാറുകളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഉയർന്ന പവർ ഉള്ള ഉപകരണങ്ങൾ എന്നിവ ഉദാഹരണങ്ങൾ ആണ് സാറ്റലൈറ്റ് എന്നതിലും ഇത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അറ്റെന്നുവേറ്റർ അഡാപ്റ്റർ പിന്നെ ഡൈ ഇലക്ട്രിക്ക് എന്നിവയും നാം ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ സങ്കീർണമായ നെറ്റ്വർക്കിൽ നാം എങ്ങനെ അപഗ്രഥനം നടത്തും അല്ലെങ്കിൽ അവിടെ നെറ്റ്വർക്ക് അനാലിസിസ് എങ്ങനെ ചെയ്യും മൈക്രോവേവ് സിസ്റ്റത്തിൽ ഉള്ള വെക്റ്റർ നെറ്റ്വർക്ക് അനാലിസിസ് എന്നത് എന്താണ് നമുക്ക് ഒരു സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറവ് ഡിസ്റ്റോർഷൻ പിന്നെ പരമാവധി എഫിഷ്യൻസിയിൽ ചെയ്യണം അപ്പോൾ ഈ ഏറ്റവും കുറവ് ഡിസ്റ്റോർഷൻ പിന്നെ പരമാവധി എഫിഷ്യൻസി എന്നിവ ലഭിച്ചോ എന്നറിയാൻ നമുക്ക് ചില കാര്യങ്ങൾ അളക്കേണ്ടതാണ് അവയിൽ ചിലതു ആംപ്ലിറ്റൂഡ് റെസ്പോൺസ് ഫേസ് റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് സ്വീപ് ഫ്രീക്വെൻസി ഉപയോഗിക്കാം അതായതു ഒന്നുകിൽ നമുക്ക് ആംപ്ലിറ്റൂഡ് അല്ലെങ്കിൽ ഫേസ് ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കാം അല്ലെങ്കിൽ പവർ സ്വീപ് എടുക്കുകയും ആകാം അതായതു ആംപ്ലിറ്റൂഡിന്റെ പിന്നെ ഫേസിന്റെ പവർ റെസ്പോൺസ് അതിനെ ലീനിയറിറ്റി ക്യാരക്റ്ററിസ്റ്റിക് എന്നും പറയും എന്തെന്നാൽ അൽപ സമയത്തിന് ശേഷം നാം പവർ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് നോൺ ലീനിയർ ആകുന്നതാണ് അപ്പോൾ ഈ ടെസ്റ്റ് എന്നതും ഇവിടെ വളരെ പ്രധാനമാണ് എന്തെന്നാൽ ഇവിടെ ഒരു ഡിസ്റ്റോർഷൻ ഇല്ലാതെ എനിക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാനാകുമോ എന്നറിയാൻ അത് അനിവാര്യമാണ് അപ്പോൾ സിഗ്നലിന്റെ ക്വാളിറ്റി നാം സൂക്ഷിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ലീനിയർ നെറ്റ്വർക്കിൽ ഡിസ്റ്റോർഷൻ ഇല്ലാതെ ട്രാൻസ്മിഷൻ സാധ്യമാകണമെങ്കിൽ വേണ്ട മാനദണ്ഡം ഞാൻ ഉദ്ദേശിക്കുന്ന ബാൻഡിൽ ആംപ്ലിറ്റൂഡ് റെസ്പോൺസ് എന്നത് പരമാവധി ഫ്ലാറ്റ് ആയിരിക്കണം ഇടതു വശത്തെ ഗ്രാഫിൽ ആംപ്ലിറ്റൂഡ് റെസ്പോൺസ് എന്നത് ഫ്ലാറ്റ് ആണ് അതുപോലെ ഫേസ് റെസ്പോൺസ് എന്നത് ലീനിയർ ആയിരിക്കണം അങ്ങനെ ആണെങ്കിൽ ഈ ലീനിയർ നെറ്റ്വർക്കിൽ ഡിസ്റ്റോർഷൻ ഇല്ലാതെ ട്രാൻസ്മിഷൻ സാധ്യമാണ് അപ്പോൾ ഈ വെക്റ്റർ മെഷർമെൻറ് എന്നത് എന്താണ് അത് ഒരു നെറ്റ്വർക്കിന്റെ ആംപ്ലിറ്റൂഡ് റെസ്പോൺസ് പിന്നെ ഫേസ് റെസ്പോൺസ് എന്നിവ അളക്കുന്നതിനെയാണ് പറയുന്നത് അപ്പോൾ സ്കേലാർ അളവുകൾ എടുക്കുന്ന നെറ്റ്വർക്ക് അനലൈസർ നമുക്ക് ലഭ്യമാണ് അതിനെ സ്കേലാർ നെറ്റ്വർക്ക് അനലൈസർ എന്ന് പറയുന്നു അവ ഫേസ് റെസ്പോൺസ് അളക്കുന്നതല്ല ആംപ്ലിറ്റൂഡ് റെസ്പോൺസ് മാത്രമേ ലഭിക്കൂ ഇപ്പോൾ നിങ്ങൾക്കു കാണാം മാഗ്നിറ്റൂഡ് ഫേസ് എന്നിവ അളക്കുക എന്നത് S പാരാമീറ്റർ പോലെ തന്നെ വളരെ അനിവാര്യമാണ് അവ അടിസ്ഥാനമായി കോംപ്ലക്സ് അളവുകൾ ആണ് അപ്പോൾ ഇവ രണ്ടിലും നിങ്ങൾക്കു ആംപ്ലിറ്റൂഡ് ഫേസ് എന്നിവ അളക്കണം ഇനി ഇമ്പിഡൻസ് നിങ്ങൾ കണ്ടു ac സർക്യൂട്ടിൽ അതും ഒരു കോംപ്ലക്സ് അളവ് ആണ് അപ്പോൾ ഈ ഇമ്പിഡെൻസിന്റെയും ആംപ്ലിറ്റൂഡ് ഫേസ് എന്നിവ അളക്കണം അല്ല എങ്കിൽ നിങ്ങൾക്കു റിയാക്റ്റീവ് ഇമ്പിഡൻസ് എന്നത് എന്താണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകില്ല പിന്നെ ഒരു ഡിവൈസ് മോഡൽ ചെയ്യാനായി നിങ്ങൾക്കു R L C എന്നിവ ഉണ്ടല്ലോ അവ പറയുവാനായി ടൈം ഡൊമൈനിൽ കോംപ്ലക്സ് വാല്യൂ ആവശ്യമാണ് എനിക്ക് എന്ത് ക്യാരക്ടറൈസ് ചെയ്യണമെങ്കിലും ഫോറിയെർ ട്രാൻസ്ഫോം പിന്നെ ഇൻവെർസ് ഫോറിയെർ ട്രാൻസ്ഫോം എന്നിവ ആവശ്യമാണ് പിന്നെ ഈ ഫോറിയെർ ട്രാൻസ്ഫോം ഇൻവെർസ് ഫോറിയെർ ട്രാൻസ്ഫോം എന്നിവ കോംപ്ലക്സ് ഓപ്പറേഷൻ ആണ് എന്തെന്നാൽ ഈ ഫോറിയെർ കോ എഫിഷ്യന്റ് എന്നത് ഒരു കോംപ്ലക്സ് നമ്പർ അല്ല എങ്കിൽ അത് പ്രശ്നം ആകും അതുപോലെ വെക്റ്റർ അക്ക്യൂറസി എൻഹാൻസ്മെന്റ് എന്നതും ഒരു കോംപ്ലക്സ് ഓപ്പറേഷൻ ആണ് ഈ നെറ്റ്വർക്ക് അനലൈസർ എന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് മൈക്രോവേവ് ബെഞ്ച് ആയിരുന്നു ഇമ്പിഡൻസ് അളക്കുന്ന സമയം നാം ഈ മൈക്രോവേവ് ബെഞ്ച് കണ്ടിരുന്നു പ്രധാനമായും സ്റ്റാൻഡിങ് വേവ് നെറ്റ്വർക്ക് അനലൈസറിൽ ആണ് പ്രവർത്തിക്കുക എന്നാൽ ഇത് സ്റ്റാൻഡിങ് വേവ് എന്ന പ്രതിഭാസത്തിൽ അല്ല പ്രവർത്തിക്കുക പക്ഷെ ഇവിടെ ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് പിന്നെ ട്രാൻസ്മിറ്റഡ് എന്നിങ്ങനെ വേവ് തര൦ തിരിക്കുന്നു അപ്പോൾ ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് പിന്നെ ട്രാൻസ്മിറ്റഡ് എന്നിങ്ങനെ പ്രത്യേകമായാണ് ഇവിടെ അളക്കുന്നത് അതാണ് ഈ നെറ്റ്വർക്ക് അനലൈസറിന്റെ ഭംഗി എന്നാൽ ഈ സ്ലോട്ടഡ് ലൈനിനു അങ്ങനെ തരം തിരിക്കാനുള്ള കഴിവില്ല അതിനാലാണ് അതിനു സ്റ്റാൻഡിങ് വേവ് എന്ന പ്രതിഭാസത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് അതായതു VSWR പോലുള്ള കാര്യങ്ങളിൽ എന്നാൽ ഈ നെറ്റ്വർക്ക് അനലൈസറിനു ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് പിന്നെ ട്രാൻസ്മിറ്റഡ് എന്നിങ്ങനെ തരം തിരിച്ചു കഴിഞ്ഞാൽ അതിനു സ്റ്റാൻഡിങ് വേവ് എന്ന പ്രതിഭാസത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഈ നെറ്റ്വർക്ക് അനലൈസറിന്റെ രീതി വച്ച് നോക്കിയാൽ അത് കുറച്ചു സങ്കീർണമാണ് ഇതെല്ലാം തന്നെ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് എനിക്ക് ഒരു ഇൻസിഡന്റ് വേവ് ഉണ്ട് ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു പിന്നെ കുറച്ചു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്നത് വിശേഷിപ്പിക്കപ്പെടുന്നത് റിഫ്ലക്ഷൻ ബൈ ഇൻസിഡന്റ് അതായതു വച്ചാണ് അത് ആ സമയത്തെ VSWR ആണ് ഈ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് പിന്നെ VSWR എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു S പാരാമീറ്റർ എന്നത് പിന്നെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് ഗാമ വോൾടേജ് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് പവർ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് പിന്നെ റിട്ടേൺ ലോസ് ഇമ്പിഡൻസ് അഡ്മിറ്റൻസ് അതുപോലെ ട്രാൻസ്മിഷൻ എന്നത് ആണ് അത് ഗൈൻ അല്ലെങ്കിൽ ലോസ് S പാരാമീറ്റർ ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് T ഇൻസെർഷൻ ഫേസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിലെ വച്ചാകും പറയുക മൈക്രോവേവിൽ റിഫ്ലക്ഷൻ പിന്നെ ട്രാൻസ്മിഷൻ എന്നത് പറയാൻ പല പരാമീറ്ററുകൾ ഉണ്ട് സ്കേലാർ ക്യാരക്ടറായിസേഷന് ഒരു ഉദാഹരണമാണ് റിട്ടേൺ ലോസ് റിട്ടേൺ ലോസ് എന്നത് ഒരു സ്കേലാർ അളവാണ് പിന്നെ VSWR എന്നതും ഒരു സ്കേലാർ ആണ് ഇനി വെക്റ്റർ ക്യാരക്ടറായിസേഷന് ഒരു ഉദാഹരണമാണ് ഇമ്പിഡൻസ് എന്തെന്നാൽ ഇമ്പിഡൻസ് എന്നത് ഒരു കോംപ്ലക്സ് അളവാണ് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് ഒരു കോംപ്ലക്സ് അളവാണ് അതിനു മാഗ്നിറ്റൂഡ് ഫേസ് ഇവ രണ്ടും ഉണ്ട് റിട്ടേൺ ലോസ് എന്നതിന്റെ നിർവചനം മൈനസ് 20 ലോഗ് റോ അതായതു ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ ക്യാരക്ടറായിസേഷന് ഉദാഹരണമാണ് ഇൻസെർഷൻ ലോസ് പിന്നെ ഗൈൻ എന്നിവ ഇത് 8510 നെറ്റ്വർക്ക് അനലൈസറിന്റെ ആർക്കിടെക്ചർ ആണ് ഇത് ഹീവ്ലെറ്റ് പക്കാർഡ് കമ്പനി നിർമിച്ച പ്രസിദ്ധമായ ഒരു നെറ്റ്വർക്ക് അനലൈസർ ആണ് ഇതാണ് ബോക്സ് പിന്നെ ഇതാണ് കൺട്രോളർ ഇതാണ് പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് സെറ്റ് ഇതിനു ഒരു സോഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പെന്റിയം PC ഉണ്ട് അതിൽ HPIB പിന്നെ ബസുകൾ എന്നിവയും ഉണ്ട് ഇനി ഈ നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് എങ്ങനെയാണു S പാരാമീറ്റർ അളക്കുന്നത് ഈ നെറ്റ്വർക്ക് അനലൈസറിനു അതിന്റെതായ സോഴ്സ് ഉണ്ട് അത് നമുക്ക് ഒരു ടെസ്റ്റ് സിഗ്നൽ അതോടൊപ്പം അതിന്റെ റെസ്പോൺസ് നോക്കി സവിശേഷതകൾ ഏതൊക്കെ എന്ന് S പരാമീറ്ററിന്റെ രൂപത്തിൽ മനസിലാക്കാം അതിനു സിഗ്നൽ വേർതിരിക്കാനുള്ള ഉപകരണവും ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു അതിനു ചില ഡയറക്ഷണൽ കപ്ലർ ഉണ്ട് അതുവഴി സിഗ്നലിനെ വേർതിരിക്കാൻ സാധിക്കും പിന്നെ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ റിസീവർ ഉണ്ട് പിന്നെ അതിനു പ്രോസസ്സിംഗ് സർക്യൂട് കൂടെ ഉണ്ട് ഇതാണ് നെറ്റ്വർക്ക് അനലൈസറിന്റെ ആർക്കിടെക്ചർ ഇതിനു ഒരു സോഴ്സ് ഉണ്ട് ഇത് ഒരു ഇൻസിഡന്റ് നിർമിക്കുന്നു അത് ഈ DUT യിലേക്ക് കൊടുക്കുന്നു അതാണ് നാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് അപ്പോൾ അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നു ഇനി ഇതിനു ഈ ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് എന്നിവ വേർതിരിക്കാനാകുന്നു അപ്പോൾ അത് രണ്ടു ഭാഗമാകുന്നു ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് എന്നിങ്ങനെ പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്തതിന്റെയും സാമ്പിൾ എടുക്കുന്നതാണ് അപ്പോൾ ഈ 3 എണ്ണം ഇവിടെ തന്നിരിക്കുന്നു ഇവിടെ മൂന്നു നാലു ഡിറ്റക്ടറുകൾ ഉണ്ട് അത് നെറ്റ്വർക്ക് അനലൈസറിന്റെ സോഴ്സിനെ പ്രോസസ്സ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു അത് ഒന്നുകിൽ ഫേസ് ലോക്ക്ഡ് VCO വോൾടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ നിർമിക്കപ്പെട്ട സോഴ്സ് ആണ് നിർമിക്കപ്പെട്ട സോഴ്സ് എന്താണെന്നു വച്ചാൽ ആ സോഴ്സിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ആണ് അതിൽ നിന്നും നമുക്ക് ഡിവൈഡ് ചെയ്തു വേറെ ഫ്രീക്വൻസി എടുക്കാനാകും അപ്പോൾ ഈ സോഴ്സിന് ഒരു പ്രത്യേക റേഞ്ച് ഉണ്ട് അതിൽ നിന്നും മറ്റു റേഞ്ചുകൾ നിർമിച്ചെടുക്കാം അപ്പോൾ ഈ സോഴ്സ് എന്നത് ബ്രോഡ് ബാൻഡ് സോഴ്സ് ആണ് അത് ധാരാളം ഫ്രീക്വെൻസികൾ നൽകുന്നു ഇൻസിഡന്റ് സിഗ്നലിന്റെ ഒരു പ്രത്യേക ഭാഗത്തു സിഗ്നൽ വേർതിരിക്കുന്നതിന്റെ ഹാർഡ്വെയർ മെഷർമെൻറ് ആണ് ഇനി പറയുക അത് ഒരു റഫറൻസ് എടുക്കുന്നു പിന്നെ ഒരു അനുപാതത്തിന്റെ അളവും എടുക്കുന്നു നിങ്ങൾ ഒരു അളവിന്റെ അനുപാതമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എറർ എന്നത് കുറവായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു ഡയറക്ഷണൽ കപ്ലർ ഉപയോഗിച്ചാണെങ്കിലും പവർ ഡിവൈഡർ ഉപയോഗിച്ചണെങ്കിലും നിർമിക്കാനാകും എന്നാൽ അതിനു ഉയർന്ന ഇൻസെർഷൻ ലോസ് ആയിരിക്കും ഡയറക്ഷണൽ കപ്ലർ എന്നത് വളരെ നല്ലതാണു അതിനു ഇടുങ്ങിയ ബാൻഡ് വിഡ്ത് ആണ് അതുപോലെ ലോസ് കുറവാണു പിന്നെ ഡയറക്ഷണൽ ബ്രിഡ്ജ് എന്നതും ഉപയോഗിക്കും എന്നാൽ ഡയറക്ഷണൽ കപ്ലർ ആണ് ഏറ്റവും പ്രസിദ്ധമായത് ഡിറ്റക്ഷൻ സാധ്യമാക്കാൻ ഡയോഡ് ഡിറ്റക്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ട്യൂൺ ഡിറ്റക്ടർ ഒരേ സിഗ്നൽ തന്നെ n തവണ സാമ്പിൾ എടുത്തിട്ട് ആവറേജ് ചെയ്യേണ്ടതാണ് സാധാരണ n എന്നത് 1024 VNA ആണ് പിന്നെ അവ കോംപ്ലക്സ് ആണ് അപ്പോൾ നാം ആവറേജ് എടുക്കുമ്പോൾ നോയ്സ് കുറയുന്നു ഇനി ഒരു റാൻഡം സിഗ്നൽ ചേർത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കു ഒരു മീൻ വാല്യൂ കിട്ടുന്നതാണ് എന്നാൽ ഈ നോയ്സിനു മീൻ എന്നത് 0 ആണ് കൂടുതൽ അളവുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ SNR മെച്ചപ്പെടുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നെറ്റ്വർക്ക് അനലൈസറിന്റെ മാഗ്നിറ്റൂഡിലെ എറർ എന്നത് 0 1 db യെക്കാൾ കുറവാണു അതുപോലെ ഫേസ് എറർ എന്നത് 0 6 ഡിഗ്രി യെക്കാൾ കുറവാണു എന്നാൽ ഏതൊരു അളവിനും ഒരു എറർ ഉണ്ടാകുന്നതാണ് ഒരു ഉപകരണവും പൂർണമല്ല അതിനു ചില സിസ്റ്റമാറ്റിക് എറർ ഉള്ളതാണ് അതുപോലെ റാൻഡം എറർ ഡ്രിഫ്ട് എറർ എന്നിങ്ങനെ സിസ്റ്റമാറ്റിക് എറർ എന്നത് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടതാണ് അങ്ങനെ എങ്കിൽ എനിക്ക് പൂർണമായ ഇമ്പിഡൻസ് മാച്ചിങ് വേണ്ടതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ കൃത്യമായ മാച്ചിങ് ലഭിക്കുന്നതല്ല പിന്നെ പോർട്ടിൽ തന്നെ ടെർമിനൽ എന്നത് ഡിഫൈൻ ചെയ്യണം എന്നാൽ യഥാർത്ഥത്തിൽ അത് കുറച്ചു നീട്ടിയാണ് എടുക്കുക അതെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് എറർ ആണ് അതിന്റെ അർഥം പല ഊഹങ്ങളിലൂടെ നാം നിർമിച്ച എറർ റാൻഡം എറർ എന്നത് നമുക്ക് പ്രവചിക്കാനാകാത്ത എറർ ആണ് അതുപോലെ ഡ്രിഫ്ട് എറർ എന്നത് പ്രകടനം മോശമാകുമ്പോൾ ഉണ്ടാവുന്നത് ഉദാഹരണത്തിനു മണിക്കൂറുകളോളം ഞാൻ ഈ ഉപകരണം പ്രവർത്തിപ്പിക്കുകയാണ് എന്ന് കരുതുക പ്രവർത്തി സമയം കൂടും തോറും അതിന്റെ റിലയബിലിറ്റി കുറയുന്നു അതാണ് ഡ്രിഫ്ട് എറർ അപ്പോൾ നെറ്റ്വർക്ക് അനലൈസർ എന്നത് ഒരു കാലിബ്രേഷൻ ചെയ്യുന്നതാണ് കാലിബ്രേഷൻ എന്നത് എന്തണ് കാലിബ്രേഷൻ എന്നതിന് മൂന്നു ഭാഗങ്ങൾ ആണ് ഉള്ളത് ആദ്യം ഈ സിസ്റ്റമാറ്റിക് എറർ നീക്കം ചെയ്യേണ്ടതാണ് കാലിബ്രേഷൻ ചെയ്യാനായി നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ലോഡ് ഉപയോഗിച്ച് അളക്കേണ്ടതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കു ഒരു ഷോർട് ഉപയോഗിച്ച് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് അളന്നു നോക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം ഒരു ഷോർട്ടിന് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് 1 ആണ് എന്നാൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കു 1 കിട്ടണമെന്നില്ല നിങ്ങൾക്കു ചിലപ്പോൾ ഒരു 135 ഡിഗ്രി ആയിരിക്കും കിട്ടുക അപ്പോൾ അറിയാം യഥാർത്ഥ ഷോർട് ഇവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ ഷോർട് എന്ന് നിങ്ങൾ കരുതിയത് യഥാർത്ഥത്തിൽ ഷോർട് അല്ല ഒരു ഷോർട് സർക്യൂട് എന്നത് വളരെ കട്ടി കൂടിയ മെറ്റൽ ആണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നതെല്ലാം തന്നെ പൂർണമായും പ്രതിഫലിക്കുന്നു ഇനി നിങ്ങൾക്കു കട്ടി കുറഞ്ഞ മെറ്റൽ പ്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ പൂർണമായും റിഫ്ലക്ഷൻ കിട്ടണമെന്നില്ല അത് സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാകുന്നതിന് ഒരു ഉദാഹരണമാണ് ഇനി ഇവിടെ ഓപ്പൺ ആണെങ്കിൽ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് 1 ആണ് ഇനി അങ്ങനെ ഓപ്പൺ ആക്കി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 കിട്ടണമെന്നില്ല അത് ചിലപ്പോൾ 30 ഡിഗ്രി ആകാം അപ്പോൾ അറിയാവുന്ന സ്റ്റാൻഡേർഡ് ടെർമിനേഷൻ വച്ച് നിങ്ങൾ അളക്കുമ്പോൾ ഈ സിസ്റ്റമാറ്റിക് എറർ എത്രയാണെന്ന് നിങ്ങൾക്കു മനസ്സിലാകും അതിനനുസരിച്ചു വേണ്ട തിരുത്തലുകളും ചെയ്യാനാകും ഇനി നിങ്ങൾ അളക്കുമ്പോൾ നമുക്ക് എറർ ആണ് ലഭിക്കുക നിങ്ങൾക്കു ഈ എറർ തിരുത്താനാകും ഈ ആകെ പ്രക്രിയയെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനലൈസർ എന്നത് ഈ കാലിബ്രേഷൻ ചെയ്യുന്നതാണ് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓസിലോസ്കോപ്പിൽ കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ട് ഓസിലോസ്കോപ് അളക്കാനായി ഉപയോഗിക്കുന്നതാണ് അത് കൃത്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കും നിങ്ങൾ ഓസിലോസ്കോപ്പിൽ 1 കിലോ ഹേർട്സ് സ്കയർ വേവ് സിഗ്നൽ കൊടുക്കുക ഇപ്പോഴുള്ള ഓസിലോസ്കോപ്പിൽ പുറകുവശത്തായി ഒരു ബട്ടൺ ഉണ്ട് ആദ്യകാലങ്ങളിൽ അത് മുൻ വശത്തായിരുന്നു അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്കു ഒരു 1 കിലോ ഹേർട്സ് സ്കയർ വേവ് സിഗ്നൽ കിട്ടും എന്നാൽ അളന്നു നോക്കുമ്പോൾ അത് 1 കിലോ ഹേർട്സ് എന്ന് കാണും പിന്നെ 1V പീക് റ്റു പീക് ആണെന്ന് കരുതുന്നു അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഈ നോബ് നിങ്ങൾക്കു അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് 1V പീക് റ്റു പീക് ആകുന്നു അതുപോലെ 1 കിലോ ഹേർട്സ് ടൈം പീരീഡ് എന്നത് 1 മില്ലി സെക്കന്റ് ആണ് എന്നാൽ ഇവിടെ അത് 1 മില്ലി സെക്കന്റ് ആകണമെന്നില്ല അതിനനുസരിച്ചു നിങ്ങൾ തിരുത്തുക അതാണ് കാലിബ്രേഷൻ അപ്പോൾ അറിയാവുന്ന കാര്യം വച്ചാണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാൻഡേർഡ് ടെർമിനേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അതിനു ശേഷം സിസ്റ്റമാറ്റിക് എറർ എന്നത് എത്രയെന്നു കണക്കു കൂട്ടുക യഥാർത്ഥ അളവിൽ ഈ മാറ്റം ഉൾപെടുത്തുക അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഇനി വെക്റ്റർ എറർ കറക്ഷൻ ഈ മോഡൽ 12 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനു ആംപ്ലിറ്റൂഡ് ഫേസ് എന്നിവ അളക്കാനുള്ള ശേഷി വേണ്ടതാണ് അതും നമുക്ക് അറിയാവുന്നതും കൃത്യവുമായ ഇലെക്ട്രിക്കൽ സവിശേഷതകൾ വേണ്ടതാണ് നിങ്ങൾക്കു കാണാം തിരുത്തലിനു മുമ്പുള്ള ടാറ്റ എന്നത് ഈ കർവ് ആണ് എന്നാൽ തിരുത്തലിനു ശേഷം അത് ഏകദേശം ഇതുപോലെ ഇരിക്കും അപ്പോൾ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നത് എറർ ഉള്ളതാണ് ഐഡിയൽ ആയ ഫ്രീക്വൻസി റെസ്പോൺസിൽ റിട്ടേൺ ലോസ് വരുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കണം ഫ്രീക്വൻസിക്കനുസരിച്ചു അത് കുറവായിരിക്കണം എന്നാൽ എറർ തിരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ഇങ്ങനെ ആകുന്നതാണ് അതാണ് നെറ്റ്വർക്ക് അനലൈസറിന്റെ ഭംഗി അതിനു കാലിബ്രേഷൻ ചെയ്യാനാകും അതിനനുസരിച്ചു ഒരുപാടു എറർ കുറക്കാനും ആകും എന്നാൽ ബെഞ്ച് ആധാരമാക്കിയുള്ള അളക്കലിൽ അത് സാധിക്കില്ല ഇത് ഒരു വിശദമായ കാഴ്ച്ച ആണ് ഇത് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരുപാടു ചാനലുകൾ ഉണ്ട് ഇവിടെ ഈ നെറ്റ്വർക്ക് അനലൈസറിൽ പൊതുവായി 4 റിസീവറുകൾ ആണ് ഉള്ളത് ചിലതു ഡിസൈൻ ചെയ്യുമ്പോൾ 4 നു പകരം 3 ആകും ഉണ്ടാകുക അതിന്റെ അക്ക്യൂറസി കുറവായിരിക്കും എന്നാൽ നല്ല നെറ്റ്വർക്ക് അനലൈസറിൽ പൊതുവായി 4 റിസീവറുകൾ ആണ് ഉള്ളത് എന്നാൽ അത് വിലകൂടിയതാണ് എന്നത് തീർച്ചയാണ് അതിനാലാണ് ഒരു വില കൂടിയ നെറ്റ്വർക്ക് അനലൈസർ S പാരാമീറ്റർ എന്നത് കോംപ്ലക്സ് വോൾട്ടേജുകളുടെ അനുപാതമായി എഴുതുന്നത് അതിന്റെ അർഥം അതിനൊരു റഫറൻസ് ഉണ്ട് അതിനനുസരിച്ചു പല അനുപാതങ്ങൾ കണക്കു കൂട്ടുന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ചില അളവുകൾ നേരെ അളക്കാവുന്നതാണ് എന്നാൽ അത് തന്നെ നമുക്ക് അനുപാതത്തിന്റെ രൂപത്തിലും എഴുതാം അപ്പോൾ ഈ അനുപാതം അളക്കുന്നത് എപ്പോഴും നല്ലതാണു നിർഭാഗ്യവശാൽ ഈ വോൾട്ടേജിന്റെ ടെർമിനൽ പ്ലെയിൻ എന്നത് നെറ്റ്വർക്ക് അനലൈസറിന്റെ അകത്താണ് ഒരു പോർട്ട് എക്സ്റ്റന്റ് ചെയ്യുമ്പോൾ അറിയാം ഈ നെറ്റ്വർക്ക് അനലൈസർ എന്നത് അകത്താണ് അപ്പോൾ ഈ പോർട്ട് വ്യത്യസ്തമായാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാം കാണുന്ന പോർട്ട് ഇപ്പോഴും യഥാർത്ഥ പോർട്ട് ആകണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ചില എറർ ഉണ്ടാകുന്നതു അത് എറർ കറക്ഷനിൽ തിരുത്തേണ്ടതാണ് ഇതുവരെ പഠിച്ചതെല്ലാം ബേസ് ആണ് അടിസ്ഥാനപരമായി നെറ്റ്വർക്ക് അനലൈസറിൽ രണ്ടു പോർട്ട് ഉണ്ട് അപ്പോൾ അവയുടെ ഇടയിൽ നിങ്ങളുടെ ഡിവൈസ് ബന്ധിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്കു S പാരാമീറ്റർ അളക്കാനാകുന്നതാണ് അത് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ആണ് ഇനി n പോർട്ട് നെറ്റ്വർക്ക് ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കു ഒരു N നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിക്കാം അപ്പോൾ അതിൽ 3 4 പോർട്ടുകൾ ഉണ്ടാകും അതുപോലെ ഇപ്പോൾ നമുക്ക് 550 ജിഗാ ഹേർട്സ് ഉള്ള ഫ്രീക്വൻസി വരെ അതിൽ ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ 1 ടെറാ ഹേർട്സ് വരെ അളക്കാൻ കഴിവുള്ള ഉപകരണം വികസിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെ കീ സൈറ്റ് ടെക്നോളജി എന്നാണ് പറയുക അതുമായി ബന്ധപ്പെട്ട കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിൽ ആണ് ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ 1 ടെറാ ഹേർട്സ് നെറ്റ്വർക്ക് അനലൈസർ വികസിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കു കാണാം ഈ ടെക്നോളജി 1 ടെറാ ഹേർട്സ് വരെയുള്ള സിഗ്നൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് അതെ നെറ്റ്വർക്ക് അനലൈസർ തന്നെ ആണ് അതെ തത്വം തന്നെ ആണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അവ 1000 G Hz വരെയുള്ള സിഗ്നലിൽ S പാരാമീറ്റർ തന്നെയാണ് കണ്ടെത്തുക അതായതു 1 T Hz അപ്പോൾ ഈ രണ്ടാമത്തെ ടൂൾ ആയ S പാരാമീറ്റർ എന്നത് ഏതൊരു മൈക്രോവേവ് നെറ്റ്വർക്കിനെയും വിശേഷിപ്പിക്കുന്നു പിന്നെ അത് അളക്കുവാനുള്ള ഉപകരണമാണ് നെറ്റ്വർക്ക് അനലൈസർ ഇത് ഇവിടെ പൂർണമാകുന്നു അപ്പോൾ നാം രണ്ടു ടൂൾ കണ്ടതാണ് ആദ്യത്തേത് സ്മിത്ത് ചാർട് ആണ് രണ്ടാമത്തേത് ഈ ലെക്ച്ചറുകളിൽ നാം കണ്ടു അത് S പാരാമീറ്റർ ആണ് ഈ ആഴ്ചയിലെ ലെക്ചർ ഇവിടെ പൂർണമാകുന്നു നന്ദി